കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ കോർപ്പറേറ്റ് ഗോവെർണൻസ് ചർച്ചചെയ്തു അക്കൌണ്ടിംഗ് തത്വങ്ങൾ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഐഎഎസ് ജിഎഎപി തുടങ്ങിയവയെകുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ചചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റെമെന്റ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു ഈ സ്റ്റെമെന്റ്സ് തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്ന അനുമാനങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നു ഈ സെഷനിൽ അക്കൌണ്ടിംഗ് പ്രിൻസിപ്പൽസ് കോണ്സെപ്റ്സ് സ്റ്റാൻഡേർഡ്സ് ഐ എ എസ് ജി എ എ പി ഇവയെല്ലാം ചർച്ച ചെയ്യാം ആദ്യം അക്കൌണ്ടിംഗ് പ്രിൻസിപ്പൽസ് നോക്കാം നമുക്കറിയാം അക്കൌണ്ടിംഗ് വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നു നാം ഇടപാടുകൾ റെക്കോർഡുചെയ്യുന്നു സ്റ്റെമെന്റ്സ് തയ്യാറാക്കുന്നു അവ ഉപയോക്താക്കൾക്ക് നൽകുന്നു അത്തരം ആശയവിനിമയം ചില ഏകീകൃതവും ശാസ്ത്രീയമായി പ്രതിപാദിച്ചിരിക്കുന്നതുമായ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാകേണ്ടത് വളരെ ആവശ്യമാണ് എങ്കിൽ മാത്രമേ എല്ലാവരും അവ ഒരേ പോലെ മനസിലാക്കൂ സാർവത്രികമായി അക്കൌണ്ടന്റുമാർ സ്വീകരിക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ആണ് അക്കൌണ്ടിംഗ് പ്രിൻസിപ്പൽസ് ഇവയാണ് പ്രധാനപ്പെട്ട അക്കൌണ്ടിംഗ് കോൺസെപ്റ്സ് അക്കൌണ്ടിംഗ് അടിസ്ഥാനമാക്കിയുള്ള അടിസ്ഥാന അനുമാനങ്ങളോ വ്യവസ്ഥകളോ ആണ് ഇവ ആദ്യത്തേത് ബിസിനസ് എന്റിറ്റി കോൺസെപ്റ് പലപ്പോഴും ഉടമയും ബിസിനസ്സും പുറത്തു നിന്ന് നോക്കുമ്പോൾ ഒന്നായി തോന്നാം എന്നാൽ അക്കൌണ്ടിങ്ങിൽ ഉടമസ്ഥൻ എന്റിറ്റിയിൽ നിന്ന് വേറിട്ടതാണെന്നും അക്കൌണ്ടുകൾ ഒരു പ്രത്യേക എന്റിറ്റിക്കായി തയ്യാറാക്കുന്നതാണെന്നും നാം ഓർക്കണം അടുത്തത് ഡ്യൂവൽ ആസ്പെക്ട് ആണ് ഓരോ ഇടപാടിനും രണ്ട് ഇഫക്റ്റുകൾ ഉണ്ടെന്ന് നമുക്കറിയാം ബാലൻസ് ഷീറ്റ് എല്ലായ്പ്പോഴും തുല്യമാക്കുന്ന രണ്ട് ഇഫക്റ്റുകൾ അവയെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നു ബാലൻസ് ഷീറ്റ് ഈക്വഷൻ നമുക് അറിവുള്ളതാണല്ലോ ഇക്വിറ്റികൾ ബാധ്യതകൾ അസറ്റുകൾ അടുത്തത് കോസ്റ്റ് കൺസെപ്റ്റ് എന്നറിയപ്പെടുന്നു അസ്സെറ്സ് സാധാരണായായി ഹിസ്റ്റോറിക്കൽ കോസ്ററ് അല്ലെങ്കിൽ അക്യുസിഷൻ കോസ്ററ് കണക്കാക്കി ആണ് രേഖപ്പെടുത്തുന്നത് മാർക്കറ്റ് മൂല്യം അവഗണിക്കുന്നു ഗോയിങ് കോൺസൺ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുമാനമാണ് ഇത് ദീർഘകാലത്തേക്ക് ഭാവിയിൽ ബിസിനസ്സ് തുടരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു മാത്രമല്ല ഇത് ഒരു ഹ്രസ്വ കാലയളവിൽ പൂർണമായി ഇല്ലാതാകാൻ സാധ്യതയില്ല എന്ന് കരുതപ്പെടുന്നു അടുത്തത് അക്കൌണ്ടിംഗ് പിരീഡ് കോൺസെപ്റ് ബിസിനസ്സ് ഒരു തുടർച്ചയായ പ്രക്രിയയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് കൊണ്ട് തന്നെ ഇടപാടുകൾ തുടർന്നുകൊണ്ടിരിക്കും പക്ഷേ അക്കൌണ്ടിങ്ങ്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സ് മുഴുവനായും ചില അക്കൌണ്ടിംഗ് കാലയളവുകളായി തിരിച്ചിരിക്കുന്നു സാധാരണയായി 1 വര്ഷം നീണ്ട അക്കൌണ്ടിംഗ് കാലയളവ് ആണ് 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു പാദമോ ഒരു മാസമോ ആകാം ഇന്ത്യയിലെ അക്കൌണ്ടിംഗ് കാലയളവിനെക്കുറിച് നിങ്ങൾക്കറിയാമോ സാധാരണയായി ഇത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്നാം തിയതി വരെയാണ് അതിനാൽ ഓരോ മാർച്ച് മുപ്പത്തിയൊന്നാം തിയതിയും ലാഭനഷ്ടം ബാലൻസ് ഷീറ്റ് പണമൊഴുക്ക് എന്നിവയും മറ്റെല്ലാ സ്റ്റെമെന്റ്സും തയ്യാറാക്കിയ ബുക്ക്സ് അടച്ചതായി കണക്കാക്കുകയും തുടർന്ന് പുതിയ ബുക്ക് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ അല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ തുറക്കുകയും ചെയ്യും അടുത്തത് മണി മെഷര്മെന്റ് കോൺസെപ്റ് ആണ് എല്ലാ ഇടപാടുകളും പണത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപെടുത്തുന്നു ഗുഡ്വിൽ അല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ ഇതൊക്കെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ അളക്കാൻ സാധിക്കില്ല അതിനാൽ അത് അക്കൌണ്ടിങ്ങിൽ രേഖപ്പെടുത്താൻ കഴിയില്ല അടുത്തത് റിയലൈസേഷൻ കോണ്സപ്റ് ഒരു കരാറിലെത്തുമ്പോൾ മാത്രമാണ് വരുമാനം അംഗീകരിക്കപ്പെടുന്നത് അതിനാൽ ഒരു ഇടപാട് അംഗീകരിക്കപെട്ടാൽ മാത്രമേ ഇടപാട് രേഖപ്പെടുത്തൂ കോൺസ്റ്റന്റ് വാല്യൂ കോൺസെപ്റ് കറൻസിയുടെ സ്ഥിരമായ മൂല്യത്തിന്റെ ഒരു അനുമാനമുണ്ട് ഉദാഹരണത്തിന് രൂപയുടെ രൂപയുടെ മൂല്യം വിദേശ കറൻസിക്ക് ആനുപാതികമായി നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നാം കണക്കുകൂട്ടുകയില്ല പണപ്പെരുപ്പം കാരണം കറൻസിയുടെ മൂല്യവും മാറുന്നു പക്ഷേ അവ ബിസിനസ്സ് ഇടപാടുകളല്ല ചില ഇടപാടുകൾ മൂന്നാം കക്ഷിയുമായി നടക്കുമ്പോൾ മാത്രമാണ് അത്തരം ഇടപാട് റെക്കോർഡുചെയ്യുന്നത് അല്ലാത്തപക്ഷം കറൻസിയുടെ മൂല്യം സ്ഥിരമായി കണക്കാക്കപ്പെടുന്നു അടുത്തത് അക്രുവൽ കൺസെപ്റ്റ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ചിലപ്പോൾ ഇടപാടുകൾ നടന്നേക്കാം പക്ഷേ പേയ്മെന്റ് വന്നിട്ടുണ്ടാവുകയില്ല അതിനാൽ പണം സ്വീകരിക്കുന്നതിലോ പണമടയ്ക്കുന്നതിലോ കാലതാമസമുണ്ടായേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അത് നേരത്തെയാകാം പക്ഷേ ഇടപാട് തീയതി കരാർ പ്രകാരം അംഗീകരിച്ച തീയതിയാണ് ഇതിനെ ഒരു അക്യുറൽ കൺസെപ്റ്റ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇടപാടുകൾ എപ്പോൾ സംഭവിക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്നു പണം സ്വീകരിക്കുമ്പോഴോ നൽകുമ്പോഴോ അല്ല അടുത്തത് കോൺസിസ്റ്റൻസി ആണ് എൻട്രികൾ നൽകുന്നതിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുന്നതിനോ അടിസ്ഥാനം അക്കൌണ്ടിംഗ് നയങ്ങളോ അനുമാനങ്ങളോ ആണ് ഒരിക്കൽ നിങ്ങൾ ഒരു പ്രത്യേക അനുമാനം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക അക്കൌണ്ടിംഗ് കോൺസെപ്റ് ഉപയോഗിക്കാൻ തീരുമാനിച്ചുവെങ്കിൽ അത് കാലാകാലങ്ങളിൽ മാറ്റാൻ പാടില്ല കാരണം അക്കൌണ്ടിംഗ് സ്റ്റേറ്റ്മെന്റുകൾ വ്യത്യസ്ത കാലയളവിൽ താരതമ്യപ്പെടുത്തേണ്ടി വരും ഇപ്രകാരം താരതമ്യപ്പെടുത്തുന്നതിന് അകൌണ്ടിങ് തത്വങ്ങളും നയങ്ങളും ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരേ രീതിയിൽ പിന്തുടരേണ്ടത് ആവശ്യമാണ് ചിലപ്പോൾ പ്രത്യേക കാരണങ്ങളാൽ അക്കൌണ്ടിംഗ് നയത്തിലെ മാറ്റം ആവശ്യമാണ് ഇത് പ്രത്യേകം വെളിപ്പെടുത്തേണ്ടതുണ്ട് അത്തരം മാറ്റങ്ങളുടെ ഫലവും വെളിപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെ അക്കൌണ്ടിംഗ് കൺവെൻഷനുകൾ ചുരുക്കത്തിൽ നൽകിയിരിക്കുന്നു കൺവെൻഷനുകളിലൊന്ന് കൺസിസ്റ്റൻസി എന്ന് അറിയപ്പെടുന്നത് ഇതിനകം നമ്മൾ കണ്ടു നാം ഉപയോഗിക്കുന്ന തത്വം ഏതായിരുന്നാലും അത് കൂടുതൽ കാലം പിന്തുടരണം ഡിസ്ക്ലോഷർ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച പ്രസക്തമായ എല്ലാ വിവരങ്ങളും വസ്തുതകളും ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കിയിരിക്കണം അത് ആശയവിനിമയം നടത്തണം അത് ശരിയായി വെളിപ്പെടുത്തണം മെറ്റീരിയലിറ്റി പലപ്പോഴും ചെറുതും നിസാരവുമായ ഇടപാടുകൾ കാണും സുപ്രധാനമായ വിവരങ്ങൾ പങ്കിടേണ്ടതും രേഖപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഇടപാടിന്റെ മെറ്റീരിയലിറ്റി കണക്കിലെടുക്കുന്നത് ഒബ്ജക്റ്റിവിറ്റി ഇപ്പോൾ ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അനുമാനം തിരഞ്ഞെടുക്കുമ്പോഴോ പക്ഷപാതപരവും വസ്തുനിഷ്ഠവുമായ വീക്ഷണം സ്വീകരിക്കേണ്ടതുണ്ട് അടുത്തത് സ്റ്റേബിൾ മൊണ്ണട്ടറി യൂണിറ്റാണ് ഇന്ത്യൻ രൂപ പോലെ റെക്കോർഡുചെയ്യുന്ന കറൻസി സ്ഥിരമായ ഒരു മൂല്യമായി കണക്കാക്കുന്നത് അവസാനത്തേത് വളരെ പ്രധാനമാണ് കൺസേർവറ്റിസം രണ്ട് ചോയ്സുകൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് വാല്യൂവേഷൻ മെത്തേഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ കുറഞ്ഞ മൂല്യം കാണിക്കുന്ന രീതി ഉപയോഗിക്കുക കാരണം അക്കൌണ്ടന്റുമാർ വരുമാനത്തിന്റെ അമിതവൽക്കരണമോ ആസ്തിയുടെ അമിതവൽക്കരണമോ ഒഴിവാക്കുന്നു കൂടുതൽ കൺസെർവറ്റിവ് സമീപനമായി റെക്കോർഡുചെയ്ത മൂല്യം കഴിയുന്നത്ര താഴ്ന്നതായി കാണിക്കുന്നു AS1 അനുസരിച്ച് AS1 എന്നാൽ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 3 അടിസ്ഥാന അക്കൌണ്ടിംഗ് അനുമാനങ്ങൾ ആണ് ഉള്ളത് ഗോയിങ് കൺസേൺ കൺസിസ്റ്റൻസി അക്രൂവൽ അക്കൌണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഇവയുടെ അടിസ്ഥാനത്തിലാണെന്ന് അനുമാനിക്കപ്പെടുന്നു അതിനാലാണ് അവരെ അടിസ്ഥാന അക്കൌണ്ടിംഗ് അനുമാനം എന്ന് വിളിക്കുന്നത് ഈ അനുമാനങ്ങളിൽ ഏതെങ്കിലും ശരിയല്ലെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ ഇവ മൂന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം അവ എല്ലായ്പ്പോഴും പിന്തുടരുന്നുവെന്ന് അനുമാനിക്കപ്പെടുന്നു അപ്പോൾ ചെറിയ ഒരു കണക്കു ചെയ്യാം എൽ ലിമിറ്റഡ് ആയി ബന്ധപ്പെട്ട ഡാറ്റ ഇപ്പോൾ നോക്കുക 2020 ഏപ്രിൽ ആദ്യം വാങ്ങിയ ഭൂമിയുടെ വില 125 ലക്ഷവും രജിസ്ട്രേഷൻ ചാർജുകൾ 15 ലക്ഷവുമാണ് 2021 മാർച്ച് മുപ്പത്തിയൊന്നാം തീയതി അതായത് 2021 മാർച്ച് മുപ്പത് അവസാനിക്കുന്ന വര്ഷം മൂന്ന് സാധ്യമായ മാർക്കറ്റ് വാല്യൂസ് ഉണ്ട് 150 ലക്ഷം രണ്ട് 120 ലക്ഷം മൂന്ന് 130 ലക്ഷം അപ്പോൾ കമ്പനി ചെയ്തത് വാർഷിക അക്കൌണ്ടുകൾക്ക് അന്തിമരൂപം നൽകുമ്പോൾ ഭൂമിയുടെ മൂല്യം 125 ലക്ഷമായി കണക്കാക്കി നിങ്ങൾക് എന്ത് തോന്നുന്നു അത് ശരിയാണോ ഓരോ സാഹചര്യത്തിലും നിങ്ങളുടെ അഭിപ്രായത്തിലെ മൂല്യം എന്തായിരിക്കും കമ്പനി എൽ ഏത് അക്കൌണ്ടിംഗ് അനുമാനമാണ് ലംഘിക്കുന്നത് ഇപ്പോൾ വിപണി മൂല്യം 150 ആയിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഭൂമിയുടെ വില എത്രയാണ് 125 പരിഗണിക്കുമോ അതോ രജിസ്ട്രേഷൻ ചാർജുകളും ചേർക്കുമോ നാം കോസ്ററ് ഓഫ് പർച്ചേസ് നമ്മൾ അതിനെ കോസ്ററ് ഓഫ് അക്വിസിഷൻ എന്ന് വിളിക്കും അതിൽ വാങ്ങൽ ചെലവും രജിസ്ട്രേഷൻ ഫീസ് പോലുള്ള ഏതെങ്കിലും ആകസ്മിക ചെലവുകളും ഉൾപ്പെടുന്നു അതിനാൽ 125 പ്ലസ് 15 കമ്പനിക്ക് ഭൂമിയുടെ വില 140 ആണ് ആദ്യത്തെ സാഹചര്യത്തിൽ വിപണി മൂല്യം 150 ആണ് അതിനാൽ ബാലൻസ് ഷീറ്റിലെ മൂല്യമായി നാം എന്ത് കണക്കാക്കണം രണ്ടിലും വച്ച് കുറഞ്ഞത് 140 140 ലക്ഷത്തിൽ വാല്യൂവേഷൻ നടത്തും ഇപ്പോൾ കമ്പനി ഇത് 125 ആക്കി അതിനാൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന തത്ത്വം അവർ ലംഘിച്ചു കാരണം ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ചെലവ് 140 ആണ് അവർ അത് 125 എന്ന് തെറ്റായി കണക്കാക്കി മനസ്സിലായോ ഇനി അടുത്ത സാഹചര്യത്തിൽ ചെലവ് 140 ആയി തുടരും മാർക്കറ്റ് മൂല്യം കുറഞ്ഞു 120 മാത്രമാണ് അപ്പോൾ ഇതിനെ എന്ത് കണക്കാക്കണം അവയുടെ മൂല്യം 140 ആണോ അതോ 120 ആയിരിക്കുമോ ഇത് സ്റ്റോക്ക് അല്ല ഇത് ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി ആയിരുന്നെങ്കിൽ വിലയോ മാർക്കറ്റ് മൂല്യമോ കുറവുള്ള ഏതെങ്കിലുമൊന്ന് എടുക്കുമായിരുന്നു ഈ കേസിൽ 120 പക്ഷേ ഇത് ഭൂമിയാണ് അതിനാൽ ഇത് ഒരു ദീർഘകാല ആസ്തിയാണ് അതിനാൽ നമ്മൾ വിപണി മൂല്യത്തിനനുസരിച്ച് പോകില്ല അതിനെ ഇപ്പോഴും 140 ആയി വിലമതിക്കും ഇവിടെ കമ്പനി ലംഘിച്ച ആശയം കോസ്റ്റ് കൺസെപ്റ്റ് ആണ് കോൺസെർവറ്റിസം കൺസെപ്റ്റിൻറെ ലംഘനമല്ല മനസിലാവുന്നുണ്ടോ അവർ അതിനെ 150 ആയി വിലമതിക്കുകയാണെങ്കിൽ അവർ കൺസർവേറ്റിസം ആശയം ലംഘിക്കും കാരണം ഭൂമി ഒരു ഫിക്സഡ് അസറ്റ് ആയതിനാൽ അക്വിസിഷൻ കോസ്ററ് അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തണം ഇനി നമുക് അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നോക്കാം അക്കൌണ്ടിംഗ് നയങ്ങളും തത്വങ്ങളും വളരെക്കാലം ഒരു പക്ഷേ നൂറുകണക്കിന് വർഷങ്ങളായി ഉപയോഗിക്കുന്നു വിവിധ രാജ്യങ്ങൾക്കും വ്യത്യസ്ത മേഖലകൾക്കും വ്യത്യസ്ത അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് പോളിസികളുണ്ട് മിക്ക നയങ്ങളും പൊതുവായതാണെങ്കിലും വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത കൺവെൻഷനുകൾ ഉണ്ട് ഈ നയങ്ങൾ മാനദണ്ഡമാക്കുന്നതിന് അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അവതരിപ്പിച്ചു അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ചില വിദഗ്ദ്ധ അക്കൌണ്ടിംഗ് ബോഡി അല്ലെങ്കിൽ റെഗുലേറ്ററി ബോഡി അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന രേഖാമൂലമുള്ള നയ രേഖകളാണ് തിരിച്ചറിയൽ ട്രീറ്റ്മെന്റ് മെഷർമെൻറ് ഡിസ്ക്ലോഷർ തുടങ്ങിയവയെക്കുറിച്ച് ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നു അവ സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് അവയെ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത് ആ പ്രദേശത്തിനകത്ത് അവ ഒരേപോലെ പിന്തുടരണം ഇപ്പോൾ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഒരു ചട്ടക്കൂടും സ്റ്റാൻഡേർഡ് നയങ്ങളും നൽകുന്നു അതിനാൽ വിവിധ എന്റിറ്റികളുടെ ഫിനാൻഷ്യൽ സ്റ്റെമെന്റ്സ് താരതമ്യപ്പെടുത്താവുന്നതാണ് ഒരു എന്റർപ്രൈസസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അതിൻ്റെ സാമ്പത്തിക നിലയെ പറ്റി ശരിയായതും ന്യായവുമായ വീക്ഷണം നൽകുന്നുവെന്ന് ഉറപ്പാക്കാൻ അക്കൌണ്ടിംഗ് മാനദണ്ഡങ്ങൾ ശ്രമിക്കുന്നു അപ്പോൾ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉചിതമായ ട്രീട്മെൻറ് നിർദ്ദേശിക്കുക മാത്രമല്ല അവ കൂടുതൽ വേഗത്തിൽ സുതാര്യതയും വിപണി അച്ചടക്കവും ഉറപ്പാക്കുന്നു പൊതുവേ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആകർഷകത്വം താരതമ്യപ്പെടുത്തൽ സുതാര്യത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു ചിലപ്പോൾ ഈ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നും വിളിക്കുന്നു വിവിധ രാജ്യങ്ങൾക്ക് വ്യത്യസ്ത അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏത് സ്റ്റാൻഡേർഡ് ആണ് ഉപയോഗിക്കുന്നത്എന്ന് നമുക്കു ചർച്ച ചെയ്യാം നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയെക്കുറിച്ചോ ഐസിഎഐയെക്കുറിച്ചോകേട്ടിരിക്കുമെന്ന് കരുതുന്നു വിവിധ അക്കൌണ്ടിംഗ് നയങ്ങളും തത്വങ്ങളും സമന്വയിപ്പിക്കുന്നതിനായി 1977 ൽ എ എസ് ബി അല്ലെങ്കിൽ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് രൂപീകരിച്ച ഇന്ത്യയിലെ അപെക്സ് അക്കൌണ്ടിംഗ് ബോഡിയാണിത് രാജ്യത്തെ നിയമം കസ്റ്റംസ് ഉപയോഗം ബിസിനസ് പരിസ്ഥിതിക്കും പരിഗണന കൊടുത്താണ് ഇത്തരം സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരുന്നത് എഎസ്ബി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കും ഉചിതമായ പരിഗണന നൽകുന്നു അന്താരാഷ്ട്ര നിലവാരത്തിന്റെ 2 സെറ്റുകൾ ഉണ്ട് അതിലൊന്നാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഐ മറ്റൊന്ന് ഇന്റർനാഷണൽ അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഐഎഎസ് ഇന്ത്യൻ മാനദണ്ഡങ്ങളെ ആഗോള മാനദണ്ഡങ്ങളുമായി താദാത്മ്യപ്പെടുത്താൻ ഉള്ള ശ്രമം 1977 മുതൽ നടക്കുന്നു ഇനി നമ്മുക് IND AS ലേക് വരാം പണ്ട് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റാൻഡേർഡ്സ് ആസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെ AS1 AS2 AS3 AS4 എന്നിങ്ങനെയുള്ള മാനദണ്ഡങ്ങളുടെ ഒരു ശ്രേണി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആഗോള തലത്തിൽ ഏകീകരണം നടത്താനായി പല രാജ്യത്തെയും സ്റ്റാൻഡേർഡ്സ് ഒരുമിച്ച് കൊണ്ട് വന്നു ഏകോപിക്കുന്നതിന്റെ ഭാഗമായി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം 2011 ഫെബ്രുവരി 21 ന് ഒരു പത്രക്കുറിപ്പ് ഇറക്കി പുതിയ സെറ്റ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് വന്നിട്ടുണ്ട് അവയെ IND AS എന്ന് വിളിക്കുന്നു ഇത് ഇന്ത്യൻ അക്കൌണ്ടിംഗ് മാനദണ്ഡങ്ങളുടെ ഒരു പുതിയ സീരീസ് ആണ് ഇപ്പോൾ ഇൻഡ്യൻ എഎസിന്റെ നിരവധി ആവശ്യകതകൾ ഇന്ത്യൻ കമ്പനികൾ പിന്തുടരുന്ന നയങ്ങളിൽ നിന്നും പ്രയോഗങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കാരണം വർഷങ്ങളായി പല ഇന്ത്യൻ കമ്പനികളും പഴയ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പിന്തുടരുന്നു ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയ ഐഎഫ്ആർഎസ് പരിശോധിച്ചു വ്യത്യാസങ്ങൾ കുറയ്ക്കുന്നതിനും സാധ്യമായത്രയും ഏകോപിപ്പിക്കുന്നതിനും ഒരു ശ്രമം നടന്നു പുതിയതായി നോട്ടിഫൈ ചെയ്ത സ്റ്റാൻഡേർഡ്സ് ആണ് ഇത് ഇന്ത്യൻ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആദ്യമായി സ്വീകരിക്കുന്നതാണ് ഐ എൻ ഡി എ എസ് 101 ഷെയർ അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റിനെക്കുറിച്ചാണ് Ind AS 2 IND AS 3 എന്നത് ഒരു ബിസിനസ് കോമ്പിനേഷനാണ് അതായത് അതിൽ ഇൻഷുറൻസ് കരാറുകൾ നിലവിലെ അസറ്റുകൾ ധാതുക്കളുടെ പര്യവേക്ഷണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനാൽ എ എസ് 107 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും 108 ഓപ്പറേറ്റിംഗ് സെഗ്മെന്റുമാണ് 107 മുതൽ 108 വരെയുള്ള പ്രത്യേക സ്റ്റാൻഡേർഡ്സ് ആണ് തുടർന്ന് ഐ എൻ ഡി എഎസ് 1 ൽ നിന്ന് ഒരു സീരീസ് ആരംഭിക്കുന്നു ഇത് അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡുകളുടെ അവതരണമാണ് ഇത് കൂടാതെ Ind AS 2 7 8 10 11 12 എല്ലാം ഉണ്ട് ഞാൻ എല്ലാ സ്റ്റാൻഡേർഡ്സും വായിക്കുന്നില്ല പക്ഷേ ഇവയെല്ലാം ഡൌൺലോഡ് ചെയ്യാൻ ലഭ്യമാണ് നിങ്ങൾക്ക് ഇവയെ കുറിച്ച കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവ ഡൌൺലോഡ് ചെയ്യുക അതിൽ അടങ്ങിയിരിക്കുന്ന കുറച്ച കാര്യങ്ങൾ മനസിലാക്കി വച്ചിരിക്കുന്നത് നന്നായിരിക്കും ഇത് എല്ലാ മാനദണ്ഡങ്ങളുടെയും പട്ടികയാണ് ഇപ്പോൾ എല്ലാ മാനദണ്ഡങ്ങളിലൂടെയും കടന്നുപോകുന്നത് കോഴ്സിന്റെ പരിധിയിൽ വരില്ല അത് ആവശ്യമില്ല ഫിനാൻഷ്യൽ സ്റ്റെമെന്റ്സ് എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നമ്മൾ ഇതിനകം കണ്ടു വിവിധ സ്റ്റാൻഡേർഡ്സ് അടിസ്ഥാനമാക്കി ആണ് അവ തയ്യാറാകുന്നത് എന്താണ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ എന്ന് നോക്കാം 1973 ൽ രൂപീകരിച്ച ഐഎഎസ്സി ഇന്റർനാഷണൽ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഒരു ബോഡി ഉണ്ട് ഇപ്പോൾ കാനഡ ജപ്പാൻ യുഎസ് എന്നിവ ഒഴികെയുള്ള മിക്ക രാജ്യങ്ങളും ആ മാനദണ്ഡങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി ശരിയായ നിർദ്ദേശവും വ്യാഖ്യാനവും നൽകുന്നതിന് 1997 സ്റ്റാൻഡേർഡ് ഇന്റർപ്രെട്ടേഷൻ കമ്മിറ്റി രൂപീകരിച്ചു ധനകാര്യ മാനദണ്ഡങ്ങൾ തയ്യാറാക്കുന്നതിലും അവതരിപ്പിക്കുന്നതിലും മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്നതിനായി 2001 ൽ ഐഎഎസ്ബി എന്ന പേരിൽ ഒരു പുതിയ ബോർഡ് രൂപീകരിച്ചു ഇപ്പോൾ ഐഎഎസ്സിയുടെ 41 മാനദണ്ഡങ്ങൾ ഐഎഎസ്ബി സ്വീകരിച്ചു ഞാൻ നിങ്ങളോട് യുഎസ് സ്റ്റാൻഡേർഡ്സ് ഇതുമായി യോജിക്കുന്നില്ല യുഎസിൽ എഫ്എഎസ്ബി ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്നൊരു ബോഡി ഉണ്ട് FASB IASB എന്നിവ വ്യത്യാസങ്ങൾ കുറയ്ക്കുകയും ആ മാനദണ്ഡങ്ങൾ കൂടുതൽ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയിലാണ് ഐഎഎസ്ബി അതിന്റെ മാനദണ്ഡങ്ങൾ ഐഎഫ്ആർഎസ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന സീരിസിൽ നിന്ന് വാങ്ങുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നു ബോർഡ് ഓഫ് ഇന്റർനാഷണൽ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർസിന്റെ മാനദണ്ഡങ്ങളും ഇവിടെ അംഗീകരിക്കപ്പെടുന്നുണ്ട് അവയെ ഇന്റർനാഷണൽ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഐ എ എസ് സി എന്ന് വിളിക്കുന്നു ഐഎഎസിന്റെ ഒരു പട്ടിക ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഐഎഎസ് ഡ ഡൌൺലോഡ് ചെയ്തു പരിശോധിക്കുക ഉദാഹരണത്തിന് ഐഎഎസ് 1 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കുന്നതിനെക്കുറിച്ചും ഐഎഎസ് 2 ഇൻവെന്ററിയെ കുറിച്ചാണ് ഐഎഎസ് 7 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചും ഐഎഎസ് 8 ഫിനാൻഷ്യൽ എസ്റ്റിമേറ്റുകളിലെയും ഏറേഴ്സിലെയും അക്കൌണ്ടിംഗ് പോളിസി മാറ്റങ്ങളെക്കുറിച്ചും ആണ് വിവിധ രാജ്യങ്ങളിലെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയാണെങ്കിൽ വ്യത്യസ്ത പരിമിതികൾ ഉണ്ട് അവയെ ഒന്നിച്ച് GAAP എന്ന് വിളിക്കുന്നു GAAP അക്കൌണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ നട്ടെല്ലാണ് എന്ന് പറയാം ഇത് കൂടാതെ സിസ്റ്റത്തിന് നിലനില്പില്ല GAAP കളും അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും അക്കൌണ്ടിങ്ങിന്റെ അടിത്തറ ആയി കണക്കാക്കാം വിവിധ തരം അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു മാണ് നാം അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ അവ ഡൌൺലോഡ് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ പഠിക്കാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നമസ്തേ